സ്വാഗതം ഇത് അൻപത്തിയാറാം നമ്പർ ലക്ച്ചർ ആണ് നമ്മൾ ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അത്തരം ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സൊലൂഷൻലൂടെയും നമ്മൾ കടന്നുപോകും പ്രത്യേകിച്ചും ഇന്നത്തെ ലക്ച്ചറിൽ കോൺസ്റ്റൻറ് കോയിഫിഷൻറ്കളുള്ള ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഇത് കൂടുതൽ പൊതുവായ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ ഒരു പ്രത്യേക കേസാണ് ഇന്നത്തെ ലക്ച്ചറിൽ നമ്മൾ സംസാരിക്കുന്ന അത്തരം ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ പൊതുരൂപം ഇതാണ്

ഇതിൽ ഗുണകങ്ങൾ ആയ എന്നിവ കോൺസ്റ്റന്റ്കളാണ് വലതുവശത്തെ എന്നത് ന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ് അത് ഒരു കോൺസ്റ്റന്റും ആവാം പക്ഷേ പൊതുവേ അത് ഒരു ഫംഗ്ഷനായിട്ട് എടുക്കാം ഇത്തരമൊരു സമവാക്യത്തെ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നു കാരണം ഇത് രേഖീയമാണ് ഇതിൽ അതായി തന്നെയോ അല്ലെങ്കിൽ അതിൻറെ ഡെറിവേറ്റീവായോ ഉള്ള ഗുണനഫലങ്ങൾ ഇല്ല അതിനാൽ ഇത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യവും അതോടൊപ്പം th ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യവുമാണ് ഇന്നത്തെ ലക്ച്ചറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ജനറൽ സൊലൂഷൻൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാമത്തെതിനെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്നു വിളിക്കുന്നു രണ്ടാമത്തേതിനെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നും വിളിക്കുന്നു കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്നത് തന്നിരിക്കുന്ന സമവാക്യത്തിൻറെ വലതുവശത്ത് ന് 0 കൊടുത്താൽ കിട്ടുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സൊലൂഷൻ ആണ് ഈ ഹോമോജീനിയസ് സമവാക്യത്തിൻറെ സൊലൂഷൻ എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ലക്ച്ചറിൽ കൂടുതലായി നമ്മൾ സംസാരിക്കുന്നത് അടുത്ത ലക്ച്ചറിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽനെക്കുറിച്ച് സംസാരിക്കും തന്നിരിക്കുന്ന സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഏതൊരു പർട്ടിക്കുലർ സൊലൂഷനെയും പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നു വിളിക്കുന്നു കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കൂട്ടിച്ചേർക്കുമ്പോൾ തന്നിരിക്കുന്ന സമവാക്യത്തിൻറെ സൊലൂഷൻ നമുക്ക് ലഭിക്കുന്നു ഇത് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പൊതുവായ സൊലൂഷൻ ആയി എങ്ങനെ മാറുമെന്നത് ഇന്നത്തെ ലക്ച്ചറിൽ നമുക്ക് കാണാം മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഇവിടെ തന്നിരിക്കുന്ന സമവാക്യം ഒരു ഓർഡർ സമവാക്യം ആയതിനാൽ ഇതിൻറെ ജനറൽ സൊലൂഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ്കളുണ്ടാകും അതോടൊപ്പം പർട്ടികുലർ സൊലൂഷൻ ആയിട്ടുള്ള പർട്ടികുലർ ഇന്റഗ്രലിൽ കോൺസ്റ്റന്റ്കൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അതിനാൽ ഇത് ആർബിട്രറി കോൺസ്റ്റന്റ്ൽ നിന്ന് മുക്തമായിരിക്കും അഥവാ എന്തെങ്കിലും കോൺസ്റ്റന്റ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വപ്രേരിതമായി കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ ആയിരിക്കും അതിനാൽ അത്തരമൊരു നോൺ ഹോമോജീനിയസ് സമവാക്യത്തിൻറെ സൊല്യൂഷൻനുള്ള ഒരു മാർഗ്ഗമാണിത് വലതുവശത്തെ 0 അല്ലാത്തപ്പോൾ നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നു 0 ആകുമ്പോൾ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നു ഇവിടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ അറിയാമെങ്കിൽ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ നേടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണെന്ന് നമ്മൾ കാണും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പർട്ടിക്കുലർ സൊലൂഷൻ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഇവ രണ്ടും ചേർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആർബിട്രറി കോൺസ്റ്റന്റ്കൾ ഉണ്ടാകും ഇത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആയി മാറുമെന്ന് നമുക്ക് കാണാം അതിനാൽ എന്താണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈ ആശയം എങ്ങനെ നേടാം ഞാൻ പറഞ്ഞതുപോലെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആണ് ഇത് ഹോമോജീനിയസ് സമവാക്യം അർത്ഥമാക്കുന്നത് ഈ വലതുവശത്ത് 0 എന്നതിന് തുല്യമാണ് എന്നാണ്

പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ വളരെ പർട്ടിക്കുലറായിട്ടുള്ള ഒരു സൊലൂഷൻ ആണ് അത് അർത്ഥമാക്കുന്നത് എന്നത് തന്നിരിക്കുന്ന സമവാക്യത്തിൻറെ ഒരു പർട്ടിക്കുലർ സൊലൂഷൻ ആണെങ്കിൽ ഇത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും അതായത് ഇത് സമവാക്യത്തിൽ ഇടതുവശത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലതുവശത്തെ ലഭിക്കണം അഥവാ എന്ന് ലഭിക്കണം അതിനാൽ ഇത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും അങ്ങനെയാണ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കണ്ട കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും നിർവചിച്ചിരിക്കുന്നത് എന്നാൽ ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കൂട്ടിച്ചേർക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്നത് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആയിരിക്കും എന്ന് നമ്മൾ പിന്നീട് തെളിയിക്കും ആ ചർച്ചയിലേക്ക് പോകുന്നതിനുമുമ്പ് സൊലൂഷൻറെ ലീനിയർ ഇൻഡിപെൻഡൻസ് അഥവാ രേഖീയ സ്വാതന്ത്ര്യം എന്ന ആശയം ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട് ലീനിയർ ആൾജിബ്രയിൽ പ്രതിപാദിച്ചത് ആണെങ്കിലും നമ്മളിവിടെ പുനരവലോകനം ചെയ്യുന്നു ആദ്യം രണ്ട് ഫംഗ്ഷനുകൾടെ ലീനിയർ ഇൻഡിപെൻഡൻസ് അവതരിപ്പിക്കുന്നു കാരണം രണ്ട് ഫംഗ്ഷനുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് കാണാൻ വളരെ എളുപ്പമാണ് ഒന്ന് മറ്റൊന്നിന്റെ സ്ഥിരമായ ഗുണിതമല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷനുകൾ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആണ് അഥവാ രേഖീയമായി സ്വതന്ത്രമാണ് എന്നു പറയാം ഒരു ഫംഗ്ഷനെ മറ്റൊന്നിന്റെ സ്ഥിരമായ ഗുണനമായി എഴുതാൻ കഴിയുന്നുവെങ്കിൽ അവ ലീനിയർലി ഡിപെൻഡൻറ് ആണ് അഥവാ രേഖീയമായി ആശ്രയിച്ചിരിക്കുന്നത് ആണ് ഉദാഹരണത്തിന് എന്നിവ എടുക്കുന്നു അവ ലീനിയർലി ഡിപെൻഡൻറ് ആണ് കാരണം രണ്ടാമത്തെ ഫംഗ്ഷൻ ആദ്യ ഫംഗ്ഷന്റെ 2 മടങ്ങ് മാത്രമാണ് എന്നാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾക്ക് ഒന്നിനെ മറ്റൊന്നിന്റെ സ്ഥിരമായ ഗുണിതമായി എഴുതാൻ കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ഔപചാരികമായി പറഞ്ഞാൽ അത് ഇതിനകം തന്നെ ലീനിയർ ആൾജിബ്രയിൽ ചർച്ചചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിവ രണ്ടു കോൺസ്റ്റന്റ്കൾ ആണെങ്കിൽ എന്ന കോമ്പിനേഷൻ 0 ആയി സജ്ജമാക്കുമ്പോൾ അത് സാധ്യമാകുന്നത് അല്ലെങ്കിൽ അത് ശരിയാവുന്നത് എന്നീ രണ്ട് കോൺസ്റ്റന്റ്കളും ഒരുമിച്ച് 0 ആകുമ്പോൾ മാത്രമാണെങ്കിൽ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആണെന്ന് നമ്മൾ പറയുന്നു ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന 0 അല്ലാത്ത മറ്റേതെങ്കിലും സൊലൂഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അവ ലീനിയർലി ഡിപെൻഡൻറ് ആയിരിക്കും കാരണം ഒരു ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ കഴിയും അതിനാൽ പരസ്പരം ആശ്രിതത്വം ഉണ്ടാകും എന്നാൽ ഈ കോമ്പിനേഷൻ 0 എന്ന് സാധ്യമാവുന്നത് ആവുമ്പോൾ മാത്രമാണ് എന്നിവയുടെ മറ്റു മൂല്യങ്ങൾക്ക് ഒന്നും സാധ്യമല്ല എങ്കിൽ എന്നീ സൊലൂഷൻകൾ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷനുകളുടെ കാര്യത്തിൽ ഇത് പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് എടുക്കാം ഇത് ഒരു കോൺസ്റ്റന്റ്ന് തുല്യമല്ലെങ്കിൽ നമ്മൾ എന്നീ ഫംഗ്ഷനുകളെ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ എന്നു വിളിക്കുന്നു ലീനിയർ ഡിപെൻഡൻസിൻറെ ചില ഉദാഹരണങ്ങൾ ആദ്യം എന്നിവ എടുക്കുന്നു ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അത് ഒരു കോൺസ്റ്റന്റ്ല്ല അതിനാൽ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ ആണ് മറ്റൊരു ഉദാഹരണം എടുക്കുന്നു വീണ്ടും അനുപാതം എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും അത് ഒരു കോൺസ്റ്റന്റ്ല്ല അതിനാൽ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ ആണ് വീണ്ടും എന്നിവ എടുത്തു അത്തരമൊരു അനുപാതം എടുക്കുകയാണെങ്കിൽ എന്നിവ രണ്ട് വ്യത്യസ്ത റിയൽ നമ്പറുകൾ ആകുമ്പോൾ മാത്രം എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ ആണ് പല ഫംഗ്ഷനുകളുടെയും ലീനിയർലി ഡിപെൻഡൻസിലേക്ക് വരുന്നു രണ്ട് ഫംഗ്ഷനുകൾക്കായി നമ്മൾ ഉപയോഗിച്ച നിർവചനം സാമാന്യവൽക്കരിക്കാനാകും അതിനർത്ഥം എന്നീ ഫംഗ്ഷനുകൾ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ ആവുന്നത് എന്ന ലീനിയർ കോമ്പിനേഷൻ 0 ആയി സജ്ജമാക്കാൻ സാധിക്കുന്നത് ഇതിലെ എല്ലാ കളും 0 ആയിരിക്കുമ്പോൾ മാത്രമാണെങ്കിൽ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ഫംഗ്ഷനുകൾ ആണ് ഇവിടെ സൊല്യൂഷൻകൾ രണ്ട് ഫംഗ്ഷനുകളിൽ കൂടുതൽ ആയിരിക്കുമ്പോൾ അവയുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് തെളിയിക്കാൻ മറ്റ് ചില മാർഗങ്ങളുണ്ട് ഈ ലീനിയർ ഇൻഡിപെൻഡൻസ് തെളിയിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു ആശയം ആണ് വ്രോൺസ്കിയൻ ഇതിൻറെ നൊട്ടേഷൻ ആണ് വ്രോൺസ്കിയൻ എന്താണ് എന്ന് നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ നിർവചിക്കും എന്നിവയുടെ വ്രോൺസ്കിയൻ പൂജ്യമല്ലെങ്കിൽ അവ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആണ് എന്താണ് ഈ വ്രോൺസ്കിയൻ ഇത് ഇവിടെ നിർണ്ണയിക്കപ്പെടുന്ന ഒരു ഡിറ്റർമിനൻറ് ആണ് ഇവിടെ ആദ്യ വരിയിൽ എന്നിവ രണ്ടാമത്തെ വരിയിൽ അവയുടെ ഡെറിവേറ്റീവുകൾ ആയിരിക്കും മൂന്നാം വരിയിൽ വീണ്ടും രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവുകൾ ആയിരിക്കും അങ്ങനെ വരിയിൽ ഓർഡർ ഡെറിവേറ്റീവുകളും ആയിരിക്കും നമ്മൾ ഈ ഡിറ്റർമിനന്റ് കണക്കുകൂട്ടുകയും ഇത് 0 ന് തുല്യമല്ലെന്ന് കാണുകയും ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനുകൾ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആണ് എന്നതാണ് അതിനാൽ രണ്ടിലധികം ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ ലീനിയർ ഇൻഡിപെൻഡൻസ് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത് രണ്ട് ഫംഗ്ഷനുകടെ കാര്യത്തിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ രണ്ട് ഫംഗ്ഷനുകൾക്ക് അവയുടെ അനുപാതം ഉപയോഗിച്ച് എളുപ്പത്തിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് കാണാൻ കഴിയും എന്ന് മുമ്പ് നമ്മൾ കണ്ടതാണ് ഇത് ലീനിയർ ഇൻഡിപെൻഡൻസ്നെയും ഡിപെൻഡൻസ്നെയും കുറിച്ചായിരുന്നു കാരണം ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സൊലൂഷന്കളുടെ ക്രമീകരണത്തിൽ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ്തന്നെ അവയെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് എന്ന ഹോമോജീനിയസ് സമവാക്യം പരിഗണിക്കാം ഇതിൽ ഓർഡർ പദം ഓർഡർ പദം കോൺസ്റ്റന്റ് ആണ് അതിനാൽ ഇത് ഹോമോജീനിയസ് സമവാക്യമാണ് കാരണം വലതുവശത്ത് 0 എന്ന് പറയപ്പെടുന്നു ഇവിടെ എന്നിവ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻകൾ ആയി അനുവദിക്കുക ഇവിടെ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന കോമ്പിനേഷൻ മുകളിലുള്ള സമവാക്യത്തിന്റെ ഒരു സൊലൂഷൻ ആയിരിക്കും എന്നതാണ് ഇതിൽ എന്നിവ ആർബിട്രറി കോൺസ്റ്റന്റ്കളാണ് നമുക്ക് എന്നീ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ് അല്ലാത്ത സൊലൂഷൻഉകൾ ഉണ്ടെങ്കിൽ എന്നതിൽ എന്നീ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്കളുള്ളതിൽ അർത്ഥമില്ല കാരണം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെ മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എഴുതാൻ കഴിയും അതിനാൽ ഇത് കൂടുതൽ മറ്റൊന്നും അർത്ഥമാക്കുന്നില്ല അതിനാൽ ഇവിടെ എന്നിവ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻഉകൾ ആണ് അങ്ങനെയാണെങ്കിൽ എന്നത് മുകളിൽ പറഞ്ഞ സമവാക്യത്തിന്റെ ഒരു സൊലൂഷൻ ആണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സമവാക്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ എന്ന് പൊതുവായി എടുത്തുകൊണ്ട് എഴുതാം അതിനാൽ ഇത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതുകൊണ്ട് മുകളിലുള്ള ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ ആണ് എന്നത് ഈ ആശയം രണ്ട് ഫംഗ്ഷനുകൾക്ക് മാത്രമല്ല നമുക്ക് കൂടുതൽ ഫംഗ്ഷനുകൾക്ക് അവയുടെ കോമ്പിനേഷനുകളിൽ ഇതേ ആശയം ഉപയോഗിക്കാം ഉദാഹരണമായി എന്നീ ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻഉകൾ ഉള്ളപ്പോൾ എന്ന അവയുടെ കോമ്പിനേഷനുകളും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ ആയിരിക്കും അതിനാൽ എന്നിവ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആയ സൊലൂഷൻകൾ ആണെങ്കിൽ അവയുടെ കോമ്പിനേഷൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് പൊതുവായി പറയാം നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ജനറൽ സൊലൂഷൻ എന്നാണ് രണ്ട് ഫംഗ്ഷനുകൾക്കായി നമ്മൾ ചെയ്തതുപോലെ ഇത് തെളിയിക്കാവുന്നതാണ് ഈ സൊലൂഷൻൽ കോൺസ്റ്റന്റ്കളുണ്ട് അതിനാൽ മുമ്പ് അവതരിപ്പിച്ച ജനറൽ സൊല്യൂഷനിലും നമ്മുടെ നിർവചനം അതായിരുന്നു ഈ സാഹചര്യത്തിൽ സൊലൂഷന് ആർബിട്രറി കോൺസ്റ്റന്റ്കൾ ഉണ്ട് ഇത് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിനർത്ഥം ഇത് സൊലൂഷൻ ആണ് എന്നാണ് അതിനാൽ നമുക്ക് ഇതിനെ പൊതുവായ സൊലൂഷൻ എന്ന് വിളിക്കാം എന്നിവ ആർബിട്രറി കോൺസ്റ്റന്റ്കളാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആയ സൊല്യൂഷൻകൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവയുടെ ലീനിയർ കോമ്പിനേഷനും ഒരു സൊലൂഷൻ ആയിരിക്കും എന്നതാണ് അല്ലെങ്കിൽ വാസ്തവത്തിൽ അത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും ഇപ്പോൾ നമ്മൾ മറ്റൊരു പ്രധാന ഫലത്തിലൂടെ കടന്നുപോകുന്നു എന്നത് ബന്ധപ്പെട്ട ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആണെങ്കിൽ ഇവിടെ വീണ്ടും നമ്മൾ സംസാരിക്കുന്നത് ഹോമോജീനിയസ് സമവാക്യത്തിന്റെ സൊല്യൂഷനെക്കുറിച്ചാണ് വലതുവശത്ത് 0 എന്ന് വരുമ്പോഴാണ് ഹോമോജീനിയസ് ആകുന്നത് എന്ന് ഓർക്കുക അത് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഏതെങ്കിലും പർട്ടിക്കുലർ സൊലൂഷൻ ആണെന്ന് എടുക്കുന്നു ഇവിടെ നമ്മൾ രണ്ട് സൊലൂഷനുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് മറ്റൊന്ന് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷന്കൾ ഉള്ളപ്പോൾ അവയുടെ കോമ്പിനേഷൻ എന്നത് ഹോമോജീനിയസ് സമവാക്യത്തിൻറെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കുമെന്ന് ഇതിനകം തൊട്ടുമുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന മറ്റൊരു ഫംഗ്ഷൻ നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഏതെങ്കിലും പർട്ടിക്കുലർ സൊലൂഷൻ ആയി നമ്മൾ എടുത്തിട്ടുണ്ട് നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എന്നത് അർത്ഥമാക്കുന്നത് വലതുവശത്ത് 0 ന് തുല്യമല്ലാത്തപ്പോൾ നൽകിയ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എന്നാണ് ഇവ രണ്ടും ചേർക്കുമ്പോൾ അതായത് എന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് നിരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷനും എന്നത് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നു വിളിക്കുന്ന നൽകിയിരിക്കുന്ന സമവാക്യത്തിൻറെ ഒരു പർട്ടിക്കുലർ സൊലൂഷൻഉം ആണ് അതിനാൽ നമ്മൾ എന്നിവ ചേർക്കുമ്പോൾ അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു ജനറൽ സൊലൂഷൻ ആയി മാറും ഇത് ഒരു ജനറൽ സൊലൂഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം സൊലൂഷന് ആർബിട്രറി കോൺസ്റ്റന്റ്കൾ ഉണ്ടായിരിക്കണം ഇവിടെ ൽ മാത്രം കോൺസ്റ്റന്റ്കൾ ഉണ്ട് അത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തിപ്പെടുടുത്തുകയും വേണം അതിനാൽ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ജനറൽസൊലൂഷൻ ആണെന്ന് തെളിയിക്കാൻ അത് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ സമവാക്യത്തിന്റെ ഇടത് വശം പരിഗണിക്കുകയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്നാകുന്നു അതിനാൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ലഭിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് ഇതാണ് എന്ന രൂപത്തിലാണ് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിനായി നമ്മൾ ഇവിടെ പൊതുവായ സൊലൂഷൻ എഴുതുന്നത് അതായത് ഹോമോജീനിയസ് സമവാക്യത്തിൻറെ സൊലൂഷൻ ആയ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നോൺ ഹോമോജീനിയസ് സമവാക്യത്തിൻറെ പർട്ടിക്കുലർ സൊലൂഷൻ ആയ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടെത്തുന്നതും തന്നിരിക്കുന്ന സമവാക്യത്തിൻറെ ഒരു പർട്ടിക്കുലർ സൊലൂഷൻ കണ്ടെത്തുന്നതും എളുപ്പമാണെന്ന് നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കും ഇവ രണ്ടും ചേർക്കുമ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ നമുക്ക് ലഭിക്കും ഈ സൊലൂഷൻകളെക്കുറിച്ച് അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനേയും പർട്ടിക്കുലർ ഇന്റഗ്രലുകളേയും കുറിച്ച് വരാനിരിക്കുന്ന ലക്ച്ചറുകളിൽ ആയിരിക്കും സംസാരിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ സൊലൂഷന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യമായ എല്ലാ അറിവുകളും അതിലേക്ക് വേണ്ട കാര്യങ്ങളും തയ്യാറാക്കും അതിനാൽ ഇപ്പോൾ അതിന്റെ ഓപ്പറേറ്റർ എന്ന ആശയം ആദ്യം പരിചയപ്പെടുത്തുന്നു ഇവ അടിസ്ഥാനപരമായി ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർകളാണ് നമ്മുടെ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ ഡെറിവേറ്റീവ് പദങ്ങളെല്ലാം കാണാം നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട് അതുഒരു ഓപ്പറേറ്ററാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട് അതുഒരു ഓപ്പറേറ്ററാണ് സൌകര്യാർത്ഥം ഈ ഓപ്പറേറ്റർകളെ എന്നിങ്ങനെ ചിഹ്നങ്ങൾ കൊണ്ടു സൂചിപ്പിക്കും എന്നാൽ മൂന്നാം ഓർഡർ ഡെറിവേറ്റീവ് എന്നാണ് അർഥമാക്കുന്നത് ഈ ഓപ്പറേറ്റർകളുടെ അവതരണത്തോടെ എന്നീ കോൺസ്റ്റന്റ്കൾക്ക് എന്നീ ഗുണനഫലങ്ങൾ രണ്ടും തുല്യമായിരിക്കും എന്ന് നമുക്ക് കാണാം being any constant വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണിത് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സൊലൂഷൻ ചർച്ച ചെയ്യുന്നതിന് വരാനിരിക്കുന്ന ലക്ച്ചറുകളിൽ ഇത് ഉപയോഗിക്കും അതിനാൽ അതുപോലെ ഒരാൾക്ക് എന്നും കാണിക്കാൻ കഴിയും അതിനാൽ ഓപ്പറേറ്റർകൾ ഉപയോഗിച്ചുള്ള ഘടകങ്ങളുടെ ക്രമം ഗുണന ഫലത്തെ ബാധിക്കുന്നില്ല ഇവിടെ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നത് എന്നിവയുടെ ഗുണനഫലം അല്ല അത് ഫസ്റ്റ് ഓർഡർ വേറ്റീവ് ആയ യുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അതിനാൽ ഇവിടെ യെ കൊണ്ട് ഗുണിച്ചാൽ നൽകിക്കൊണ്ട് നമുക്ക് വലതുവശത്തെ ലഭിക്കുന്നു രസകരമായത് എന്തെന്നാൽ ഇവിടെ ഒരു ഓപ്പറേറ്ററാണ് എന്നിരുന്നാലും xഎന്നതിന് മറ്റൊരു അർത്ഥം ആണ് ഇവിടെ അത് ഡെറിവേറ്റീവ്ൻറെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുക എന്നാണ് എന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്നുള്ള ചിഹ്നമാണ് ഇവിടെ ഈ ഗുണനഫലം നമുക്ക് അക്കങ്ങളിൽ ചെയ്യുന്നതു പോലെ തന്നെ ചെയ്യാം മാത്രമല്ല ഇത് ഓപ്പറേറ്റർകളുടെ ഒരു പ്രത്യേകതയുമാണ് അതിനാൽ ആശങ്കപ്പെടാതെ തന്നെ നമുക്ക് ഈ യെ ഒരു സംഖ്യയായി പരിഗണിച്ച് റിയൽ നമ്പറുകളിൽ ചെയ്യുന്നതുപോലെ കൃത്യമായി ചെയ്യാൻ കഴിയും അതിനാൽ ഇവ രണ്ടും തുല്യമാണെന്നും അവ എന്നിവയുടെ ഗുണനഫലം ആണെന്നും നമ്മൾ കാണുന്നു ഒരു ഓപ്പറേറ്ററാണ് എന്നത് മറന്നാലും എന്നിവയുടെ ബീജഗണിത ഗുണനത്തിലൂടെ നമുക്ക് ഇത് ചെയ്യാം പൊതുവേ ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയ എന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഉള്ളപ്പോൾ അതിനെയും നമുക്ക് എന്ന രൂപത്തിൽ ഘടകങ്ങൾ ആക്കി എഴുതാൻ സാധിക്കും കാരണം ഇത് യിൽ ഉള്ള ഒരു പോളിനോമിയൽ സമവാക്യമാണ് ഓപ്പറേറ്ററിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഈ ആൽഫകളുടെ മൂല്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ന ഗുണനഫലമായി എഴുതാം ഈ രീതിയിൽ ഫാക്റ്ററൈസ് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഇവിടെ എന്നാൽ അത് പോലെയല്ല ഇവിടെ അത് അർത്ഥമാക്കുന്നത് ഓർഡർ ഡെറിവേറ്റീവ്നുള്ള ഓപ്പറേറ്റർ എന്നാണ് എന്നിരുന്നാലും ഈ രീതിയിൽ ഫാക്റ്ററൈസ് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാണ് അടുത്ത ലക്ച്ചറിൽ നമ്മൾ ഈ കുറുപ്പിനൊപ്പം തുടരുന്നതായിരിക്കും നമ്മൾ ഉപസംഹരിക്കുകയാണ് എന്ന കോൺസ്റ്റൻറ് കോയിഫിഷൻറ്കളുള്ള ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു അവയുടെ ജനറൽ സൊലൂഷനെ കുറിച്ചും ചർച്ച ചെയ്തു അത്തരമൊരു നോൺ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ പൊതുവായ സൊല്യൂഷൻ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം നാം കണ്ടത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നിവ കണ്ടെത്തി അവ ചേർത്ത് എഴുതുക എന്നതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നാൽ വലതുവശത്തെ 0 ആയി സജ്ജമാക്കുമ്പോൾ ലഭിക്കുന്ന ഹോമോജീനിയസ് സമവാക്യത്തിന്റെ സൊലൂഷൻ ആണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നത് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊലൂഷനും ആണ് മറ്റൊന്ന് നമ്മൾ കണ്ടത് ഓപ്പറേറ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇത് എന്ന രൂപത്തിൽ ബീജഗണിത സമവാക്യം പോലെ പരിഗണിക്കാമെന്നതാണ് തുടർന്ന് എന്ന സമവാക്യത്തിൻറെ റൂട്ടുകൾ അറിയാമെങ്കിൽ തന്നിരിക്കുന്ന സമവാക്യത്തെ എന്ന രൂപത്തിൽ ഘടകങ്ങൾ ആക്കി എഴുതാമെന്നും നമ്മൾ കണ്ടു ഇത് എന്ന സൊലൂഷൻ കണ്ടെത്തുന്നതിൽ അത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണെങ്കിലും പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നു നമ്മൾ ഇവിടെ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി